നമസ്കാരം സർവീസ് മാർക്കറ്റിംഗ് വിത്ത് എ പ്രാക്ടിക്കൽ അപ്രോച്ചിന്റെ ഈ സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോൾ പാഠം 29 ലേക്ക് പോകും അത് സംയോജിത മാർക്കറ്റിംഗ് ആശയവിനിമയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന്റെ രണ്ടാം ഭാഗം ആണ് ഇതിൽ ആശയവിനിമയ മിശ്രിതവും ശരിയായ ആശയ വിനിമയം നടത്തലും ഉൾപ്പെടുന്നു ആശയവിനിമയ മിശ്രിതം മാർക്കറ്റിംഗ് ആശയവിനിമയ മിശ്രിതം ഉപയോഗിച്ച് നമ്മുടെ സാധ്യതകളിലേക്കും ഉപഭോക്താക്കളിലേക്കും നമ്മുടെ സേവനങ്ങളെക്കുറിച്ച് ആശയവിനിമയം നടത്താം മാർക്കറ്റിംഗ് ആശയവിനിമയ മിശ്രിതത്തിൽ പരസ്യം വിൽപ്പന പ്രമോഷൻ ഇവന്റുകളും അനുഭവങ്ങളും പബ്ലിക് റിലേഷൻസും പബ്ലിസിറ്റിയും നേരിട്ടുള്ള വിപണനവും വ്യക്തിഗത വിൽപ്പനയും ഉൾപ്പെടുന്നു മിശ്രിതത്തിന്റെ ഓരോ ഘടകങ്ങളും ഇനിപ്പറയുന്ന വിഭാഗങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം പരസ്യം പത്രങ്ങൾ പത്രം ഉൾപ്പെടുത്തലുകൾ മാസികകൾ ടെലിവിഷൻ റേഡിയോ പരസ്യബോർഡുകൾ സിനിമ ഇന്റർനെറ്റ് മൊബൈൽ ഫോണുകൾ മൊബൈൽ പ്രക്ഷേപണം തുടങ്ങിയ ബഹുജന മാധ്യമങ്ങൾ ഉപയോഗിച്ച് ചെയ്യാവുന്ന പരോക്ഷമായ ആശയവിനിമയത്തിന്റെ ഒരു പണമടച്ചുള്ള ആശയവിനിമയമാണ് പരസ്യം പരസ്യം വളരെ ചെലവേറിയതാണെങ്കിലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു വലിയ ജനസംഖ്യയിൽ എത്തിച്ചേരാനാകും ലക്ഷ്യമിട്ട പ്രേക്ഷകർക്ക് ശരിയായ സന്ദേശം നൽകുമ്പോൾ പരസ്യം ചെയ്യൽ ഫലപ്രദമാകും നിലവിലെ സാഹചര്യത്തിൽ വലിയ അളവിൽ ചെയ്യുന്ന പരസ്യത്തിന്റെ ഒരു പ്രധാന രൂപമാണ് ഇന്റർനെറ്റ് പരസ്യം എന്നത് നാം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് വിൽപ്പന പ്രമോഷൻ ഉണ്ട് ഇതിൽ വിൻഡോ ഡിസ്പ്ലേ കൂപ്പണുകൾ ഡിസ്കൌണ്ടുകൾ വിൽപ്പന പണം ഓഫ് റിബേറ്റ് ഹാപ്പി അവേഴ്സ് സൌജന്യ സമ്മാനങ്ങൾ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഡീലുകൾ ക്ലബ് അംഗത്വങ്ങൾ ഫ്രീക്വൻസി പോയിന്റുകൾ എന്നിവ ഉൾപ്പെടുന്നു പരസ്യം സേവനത്തിലേക്കുള്ള പ്രതീക്ഷകളെ ആകർഷിക്കുമ്പോൾ സെയിൽസ് പ്രൊമോഷനുകൾ സേവനം വാങ്ങുന്നതിനും പരീക്ഷിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നു ഡീലുകൾ വീണ്ടെടുക്കുന്നത് രസകരവും ബുദ്ധിപരവുമായ ഒരു വാങ്ങൽ ആയി ചില ഉപഭോക്താക്കൾ കാണുന്നുണ്ടെങ്കിലും സെയിൽസ് പ്രമോഷൻ പ്രാഥമികമായി ഉപഭോക്താവിന് ഒരുതരം സാമ്പത്തിക ലാഭം അനുവദിക്കുന്നു ഇവന്റുകൾ ഇവന്റുകളിൽ ട്രേഡ് ഷോകൾ റോഡ് ഷോകൾ ഉദ്ഘാടന ചടങ്ങുകൾ മുതലായവ ഉൾപ്പെടുന്നു അവ ലാഭ കുറവുള്ള കാലയളവിൽ വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിനാണ് അനുഭവങ്ങൾ സേവന സൌകര്യത്തിലേക്കുള്ള സന്ദർശനത്തിനായി അതിഥികളെ ക്ഷണിക്കുന്നതും സന്ദർശകരുടെ മനസ്സിൽ അവബോധവും പോസിറ്റീവ് കൂട്ടുകെട്ടുകളും സേവനത്തെക്കുറിച്ചുള്ള പോസിറ്റീവ് വാക്കുകളും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ അതിന്റെ സേവനങ്ങൾ അനുഭവിക്കുന്നതും അനുഭവങ്ങളിൽ ഉൾപ്പെടുന്നു പബ്ലിക് റിലേഷൻസ് പബ്ലിക് റിലേഷൻസിൽ കമ്പനി വക്താവ് പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ചും സേവനവുമായി ബന്ധപ്പെട്ട മുൻകാല പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ സേവനം മെച്ചപ്പെടുത്തുന്നതിനായി നടത്തിയ നിക്ഷേപങ്ങളെക്കുറിച്ച് അറിയിക്കുന്നതിനോ ഉള്ള ആശയവിനിമയം ഉൾപ്പെടുന്നു പൊതു ഉപഭോഗത്തിനായുള്ള സേവനത്തെക്കുറിച്ചുള്ള എഡിറ്റോറിയൽ ആശയവിനിമയം ഉൾപ്പെടെ മൂന്നാം കക്ഷി ആശയവിനിമയം പബ്ലിസിറ്റിയിൽ ഉൾപ്പെടുന്നു സാധാരണയായി മാധ്യമ റിപ്പോർട്ടർമാരെ കമ്പനിയുടെ ഒരു പത്രസമ്മേളനത്തിലേക്ക് ക്ഷണിക്കുകയും സൌകര്യം സന്ദർശിക്കുകയും സേവന ബിസിനസിനെക്കുറിച്ച് സാഹിത്യം നൽകുകയും ചെയ്യുന്നു മാധ്യമ പ്രവർത്തകർ കമ്പനിയെക്കുറിച്ച് മാധ്യമങ്ങളിൽ എഴുതുന്നു ബിസിനസ്സുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു മൂന്നാം കക്ഷി എന്ന നിലയിൽ ബിസിനസിനെക്കുറിച്ച് ആശയവിനിമയം നടത്തുകയും യഥാർത്ഥ സാഹചര്യം ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നതിനാൽ പ്രേക്ഷകർ ഇത്തരത്തിലുള്ള ആശയവിനിമയം പരമാവധി വിശ്വസിക്കുന്നു നേരിട്ടുള്ള മാർക്കറ്റിംഗിൽ ടെലിഫോൺ മെയിൽ അല്ലെങ്കിൽ ഇമെയിൽ ആശയവിനിമയങ്ങൾ കാറ്റലോഗുകൾ ഉൾപ്പെടെ ടാർഗെറ്റ് പ്രേക്ഷകർക്ക് സേവന ബിസിനസിനെക്കുറിച്ച് അയയ്ക്കുകയും ചില വിവരങ്ങൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയവ ഉപയോഗിച്ച് മറുപടി നൽകിക്കൊണ്ട് പ്രവർത്തിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു നേരിട്ടുള്ള മാർക്കറ്റിംഗിൽ ഇൻഫോമെർഷ്യലുകൾ അല്ലെങ്കിൽ ടെലിവിഷൻ എന്നിവ ഉൾപ്പെടുന്നു അവിടെ സേവനം വളരെ വിശദമായി വിശദീകരിക്കുകയും വാങ്ങൽ നടത്താൻ സ്ക്രീനിൽ ദൃശ്യമാകുന്ന ടെലിഫോൺ നമ്പറുകൾ ഡയൽ ചെയ്യാൻ സാധ്യത അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ശരിയായ വ്യക്തികൾക്ക് അയച്ചാൽ ഇത് വളരെ ഫലപ്രദമായ ഒരു വ്യക്തിഗത ആശയവിനിമയ രീതിയാണ് വ്യക്തിഗത വിൽപ്പന വ്യക്തിഗത വിൽപ്പനയിൽ ഭാവി ഉപഭോക്താക്കളെ സന്ദർശിക്കുന്നതും സേവനങ്ങൾ വിൽക്കുന്നതും ഉൾപ്പെടുന്നു ഇൻഷുറൻസ് ഏജന്റുമാർ നടത്തുന്ന വ്യക്തിഗത വിൽപ്പന പ്രവർത്തനം നമുക്ക് പരിചിതമായിരിക്കും ചെലവേറിയതാണെങ്കിലും വിൽക്കുന്ന വ്യക്തിക്ക് ഭാവി ഉപഭോക്താക്കളെ അടിസ്ഥാനമാക്കി സേവനത്തിന്റെ പ്രയോജനങ്ങൾ അറിയിക്കാൻ കഴിയുമെങ്കിൽ വ്യക്തിഗത വിൽപ്പന വളരെ ഫലപ്രദമായിരിക്കും ശരിയായ ആശയ വിനിമയം നടപ്പിലാക്കൽ സേവന ഗുണനിലവാര വിടവ് 4 നെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഉപഭോക്താവും ആയി ആശയവിനിമയം നടത്തിയതും യഥാർത്ഥ ഡെലിവറിയും തമ്മിലുള്ള പൊരുത്തക്കേട് ഇത് കൈകാര്യം ചെയ്യുന്നു ഉപഭോക്താവിനെ അറിയിക്കുന്ന വാഗ്ദാനങ്ങൾക്ക് തുല്യമോ അതിലധികമോ തലത്തിൽ സേവനങ്ങൾ നൽകുക എന്നതാണ് സേവന ബിസിനസിന്റെ ഈ ലക്ഷ്യം ഇനിപ്പറയുന്ന നാല് തന്ത്രങ്ങളിലൂടെ ഇത് നേടാനാകും ആദ്യം സേവന വാഗ്ദാനങ്ങളുടെ മാനേജ്മെന്റ് രണ്ടാമത് ഉപഭോക്തൃ പ്രതീക്ഷകൾ നിയന്ത്രിക്കുക മൂന്നാമത് ഉപഭോക്തൃ പ്രതീക്ഷകൾ മെച്ചപ്പെടുത്തുക നാലാമത് ആന്തരിക വിപണന ആശയവിനിമയം കൈകാര്യം ചെയ്യുക സേവന വാഗ്ദാനങ്ങളുടെ മാനേജ്മെന്റ് നേരത്തേ ചർച്ച ചെയ്തതു പോലെ പഫറി അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ നിറവേറ്റാനുള്ള ഓർഗനൈസേഷന്റെ കഴിവില്ലായ്മ കാരണം അപര്യാപ്തമായ സേവന വാഗ്ദാനങ്ങൾ ഉണ്ടാകാം വീണ്ടും ഓർഗനൈസേഷന്റെ കഴിവില്ലായ്മ ഒരുക്കത്തിന്റെ അഭാവം മൂലമോ അല്ലെങ്കിൽ മറ്റൊരു ശാഖ വാഗ്ദാനം ചെയ്തതിനെക്കുറിച്ചും സേവന ജീവനക്കാർക്ക് അത് എങ്ങനെ നിറവേറ്റാനാകുമെന്നതിനെക്കുറിച്ചും ഓർഗനൈസേഷന്റെ വിവിധ ഭരണകൂട ശാഖകൾക്ക് വ്യക്തതയില്ലാത്തതുകൊണ്ടാകാം 1999 ൽ പ്രൊഫസർ ബൻവാരി മിത്തൽ സേവനങ്ങളുടെ അദൃശ്യമായ സ്വഭാവത്തെ അഞ്ച് വശങ്ങളായി വിഭജിക്കുകയും ഓരോ വശത്തെയും ഇനിപ്പറയുന്ന രീതിയിൽ അഭിസംബോധന ചെയ്യാനുള്ള ആശയവിനിമയ തന്ത്രം കൈമാറുകയും ചെയ്തു ഭാഗം എ സേവനങ്ങൾക്ക് ഭൌതിക രൂപമില്ലാതെ ഒരു അസ്വാഭാവിക അസ്തിത്വമുണ്ട് അതനുസരിച്ച് ശരിയായ അസോസിയേഷനുകളുമായി സേവന ഫലം വ്യക്തമായി പ്രദർശിപ്പിക്കണം സേവന ആനുകൂല്യങ്ങൾ വിനോദം സുരക്ഷ ആരോഗ്യം എന്നിവപോലെ അമൂർത്തമാണ് അതിനാൽ സേവനത്തിൽ നിന്ന് ആളുകൾക്ക് എങ്ങനെ പ്രയോജനം ലഭിക്കുമെന്ന് ആശയവിനിമയം തെളിയിക്കണം നമ്പർ സി സേവനങ്ങൾ പൊതുവെ വിവരിക്കപ്പെടുന്നത് പ്രത്യേകതകൾ വ്യക്തമാക്കാതെ അത്ഭുതകരമായ സേവനം സമ്പൂർണ്ണ ഉപഭോക്തൃ സംതൃപ്തി തുടങ്ങിയവ പറഞ്ഞുകൊണ്ടാണ് ജോലിസ്ഥലത്തെ സേവന ഉദ്യോഗസ്ഥരെ കാണിക്കുന്ന സേവന പ്രകടന എപ്പിസോഡ് സിസ്റ്റം ഡോക്യുമെന്റേഷന്റെ ഭാഗങ്ങളും അംഗീകാര സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള പ്രകടന സ്ഥിതിവിവരകണക്കുകളോടുമൊപ്പം പ്രദർശിപ്പിക്കണം ഡി സേവനങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് തിരയാനും പ്രിവ്യൂ ചെയ്യാനും കഴിയില്ല പ്രകടന രേഖകളും ഉപഭോക്തൃ സാക്ഷ്യപത്രങ്ങളും പ്രദർശിപ്പിക്കണം ട്രയൽ സേവന സൌകര്യം സന്ദർശിക്കൽ മുതലായവ വഴി പ്രതീക്ഷിത ഉപഭോക്താക്കൾക്ക് സേവന സാമ്പിൾ നൽകാം ഉദാഹരണത്തിന് ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഭാവി വിദ്യാർത്ഥികൾക്ക് ഒരു ക്ലാസ്സ് സെഷനിൽ പങ്കെടുത്ത് അത് പ്രിവ്യൂ ചെയ്യാൻ അനുവദിക്കുന്നു സേവനങ്ങൾ മാനസികമായ ദുർഗ്രാഹ്യതയാൽ കഷ്ടപ്പെടുന്നു അതായത് അവ സങ്കീർണ്ണമായ നടപടിക്രമങ്ങളുടെ ഒരു കൂട്ടമാണ് ഇതിന് സേവന പ്രക്രിയയെക്കുറിച്ചുള്ള ആശയവിനിമയവും കമ്പനി തന്റെ ഉപഭോക്താക്കൾക്ക് വേണ്ടി എന്തു ചെയ്തു എന്നതിനെക്കുറിച്ചുള്ള മുൻ കഥകളും ആവശ്യമാണ് മേൽപ്പറഞ്ഞവയ്ക്ക് പുറമേ ഫലപ്രദമായ പരസ്യത്തിൽ സേവനത്തെക്കുറിച്ചുള്ള കഥകൾ വിവരിക്കുന്നതും സേവന പ്രക്രിയയുടെയും ഫലത്തിന്റെയും വ്യക്തമായ മാനസിക ചിത്രം സൃഷ്ടിക്കുന്നതും ഉൾപ്പെടുന്നു ശാരീരിക തെളിവുകളും വസ്തുക്കളും സേവനവുമായി ബന്ധപ്പെടുത്താവുന്നതാണ് സേവന ജീവനക്കാർ സേവനത്തിന്റെ മുഖമായതിനാൽ അവർ ആശയവിനിമയ സന്ദേശങ്ങളിൽ ഫീച്ചർ ചെയ്യപ്പെടണം അതേ സമയം സേവന ഉപഭോക്താക്കളും അവരുടെ സേവനത്തിന്റെ അനുഭവത്തിന്റെ സാക്ഷ്യപത്രങ്ങളോടൊപ്പം ഫീച്ചർ ചെയ്യപ്പെടണം സേവന ആശയവിനിമയം നർമ്മവും രസകരവുമാകാം അതുവഴി ആളുകളുടെ ചർച്ചാവിഷയമാകും ആശയവിനിമയ മിശ്രിതത്തിന്റെ വിവിധ ഘടകങ്ങൾ ഉപയോഗിച്ച് സ്ഥിരമായ ആശയവിനിമയം നടത്തേണ്ടത് പ്രധാനമാണ് അതായത് എല്ലാ സന്ദേശങ്ങളും പരസ്പരം പൊരുത്തപ്പെടുന്നു അവസാനമായി സേവന ആശയവിനിമയം സേവന ബിസിനസ്സ് നിറവേറ്റാൻ തയ്യാറാണെന്ന് വാഗ്ദാനം ചെയ്യണം കൂടാതെ കമ്പനിയിലെ എല്ലാ ജീവനക്കാരും എന്താണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നതെന്നും അത് നിറവേറ്റാൻ എന്താണ് ചെയ്യേണ്ടതെന്നും അറിഞ്ഞിരിക്കണം ഉപഭോക്താക്കൾക്ക് അർത്ഥവത്തായ വാഗ്ദാനങ്ങൾ നൽകുന്നതിനുള്ള ഒരു മാർഗ്ഗം സേവന ഗ്യാരണ്ടികൾ വാഗ്ദാനം ചെയ്യുകയും അവ നിറവേറ്റുകയും ചെയ്യുക എന്നതാണ് ഇത് നമ്മുടെ സേവന ബിസിനസ്സ് ന്യായവും സത്യസന്ധവും വിശ്വസനീയവും ആയി കണക്കാക്കാനും അതിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനും ഉപഭോക്താക്കളെ സഹായിക്കും അടുത്തതായി ഉപഭോക്തൃ പ്രതീക്ഷകൾ കൈകാര്യം ചെയ്യുക യഥാർത്ഥനിരൂപിതമായ ആശയവിനിമയം ഉപഭോക്താക്കളുടെ മനസ്സിൽ ശരിയായ പ്രതീക്ഷകൾ വളർത്തുന്നു ഈ സാഹചര്യത്തിൽ സേവനം അതിന്റെ മുൻ വാഗ്ദാനങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ പോകുന്നു ഉപഭോക്താവിന് തിരഞ്ഞെടുത്ത ബദൽ നിറവേറ്റാൻ കഴിയുന്ന തരത്തിൽ ഉപഭോക്താവിന് ചോയ്സ് നൽകാൻ കഴിയും സേവന ഫലങ്ങളും അവയുടെ നിലകളും വിവിധ വിലകളിൽ വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത സേവന ഫലങ്ങൾ വാഗ്ദാനം ചെയ്യാൻ കഴിയും നൂറുകണക്കിന് മൊബൈൽ ഫോൺ സേവന പദ്ധതികൾ മുകളിൽ പറഞ്ഞ ആശയത്തിന് ഉദാഹരണമാണ് ഉപഭോക്താക്കൾ ഒരു ബദൽ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് ലഭിക്കാൻ പോകുന്ന സേവനത്തിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ച് അവർക്ക് വ്യക്തതയുണ്ട് ചില സമയങ്ങളിൽ ഉപഭോക്താക്കൾ മിനിമം ലെവലുകൾ വ്യക്തമാക്കാൻ ഒരു സേവനത്തിന്റെ വില ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നു ആ സാഹചര്യങ്ങളിൽ ഒരേ ആവശ്യം നിറവേറ്റുന്നതിനുള്ള ഇതര മാർഗ്ഗങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സേവനത്തിൽ നിന്ന് ഉപഭോക്താവിന് ലഭിക്കുന്ന അതുല്യമായ നേട്ടങ്ങളും മൂല്യവും സേവന മാനേജർമാർ അറിയിക്കണം ഈ ബിസിനസ്സ് ഉപഭോക്താക്കൾക്ക് സേവന ബിസിനസ്സ് നൽകുന്ന മൂല്യത്തേക്കാൾ എത്രമാത്രം കുറവാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കണം ഉപഭോക്തൃ പ്രതീക്ഷകൾ മെച്ചപ്പെടുത്തുക സേവന ബിസിനസിൽ അവരുടെ പങ്കിനെക്കുറിച്ച് ഉപഭോക്താക്കൾക്ക് അറിവ് നൽകണം അടുത്ത ഘട്ടത്തിന്റെ ഭാഗമായി അവർ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് വ്യക്തമായ ഘട്ടം ഘട്ടമായുള്ള മാർഗ്ഗനിർദ്ദേശം നൽകേണ്ടതുണ്ട് സേവന പ്രക്രിയയിൽ ഉപഭോക്താവിന് തന്റെ പങ്ക് നിർവഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സേവനദാതാക്കൾ മനസ്സിലാക്കണം സേവനം വിതരണം ചെയ്യപ്പെടാതെ വിൽക്കപ്പെടാതെ തുടരുന്നു അതിനാൽ ഉപഭോക്തൃ വിദ്യാഭ്യാസം ഉപഭോക്താക്കൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ എപ്പോൾ എങ്ങനെ നിർവ്വഹിക്കണം എന്ന് ഓർമയുണ്ടെന്ന് ഉറപ്പുവരുത്തണം ഉപഭോക്താക്കൾ കാത്തിരിക്കുന്നത് ഇഷ്ടപ്പെടാത്തതിനാൽ ആനുകൂല്യങ്ങളെക്കുറിച്ച് അവരെ പഠിപ്പിക്കാൻ കഴിയും ഹാപ്പി അവേഴ്സിൽ സേവനം ഉപയോഗിച്ചാൽ അവർക്ക് അത് സ്വീകരിക്കാൻ കഴിയും സേവന പ്രക്രിയയിൽ ഉപഭോക്താക്കൾക്ക് അവരുടെ പങ്കിനെക്കുറിച്ചോ സേവന ഡെലിവറിയിൽ സവിശേഷമായ മറ്റേതെങ്കിലും വിവരങ്ങളെക്കുറിച്ചോ അറിയാമെന്ന് ബിസിനസ്സ് കരുതരുത് അടുത്തതായി ഉപഭോക്താക്കളുമായി സേവന മാനദണ്ഡങ്ങളെക്കുറിച്ചും ബിസിനസ്സ് പാലിക്കുന്ന ഗ്യാരണ്ടികളെക്കുറിച്ചും ആശയവിനിമയം നടത്തണം സേവനം അവസാനിക്കുമ്പോൾ അത് ഉപഭോക്താവുമായി ആശയവിനിമയം നടത്തുകയും നിലവാരമനുസരിച്ച് സേവനം എങ്ങനെ വിതരണം ചെയ്തുവെന്നും ഫലങ്ങളുടെ സ്ഥിരതയെക്കുറിച്ച് എന്തെങ്കിലും ഉറപ്പ് നൽകുകയും വേണം സേവന ബിസിനസിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് ഇത് ഉപഭോക്താക്കളെ അപ്ഡേറ്റ് ചെയ്യുന്നു ഉപഭോക്താവ് ഇത് മറ്റുള്ളവരോട് പറയുകയും ഈ വാക്ക് വാമൊഴിയായി പ്രചരിക്കുകയും അതുവഴി കമ്പനിയുടെ ഡെലിവറി നിലവാരത്തെക്കുറിച്ച് വിശാലമായ അറിവ് സൃഷ്ടിക്കുകയും ചെയ്യും ആന്തരിക വിപണന ആശയവിനിമയങ്ങൾ കൈകാര്യം ചെയ്യുക മുമ്പ് ചർച്ച ചെയ്തതുപോലെ കമ്പനിയുടെ എല്ലാ ശാഖകളും ഉപഭോക്താക്കൾക്കായി നിറവേറ്റേണ്ട മാർക്കറ്റിംഗ് വാഗ്ദാനങ്ങളെയും സംരംഭങ്ങളെയും കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ് ഇതിന് ലംബമായും തിരശ്ചീനമായും തത്സമയ ആശയവിനിമയം ആവശ്യമാണ് ഉപഭോക്താക്കൾക്ക് സോൺ തിരിച്ചുള്ള അല്ലെങ്കിൽ ഉൽപ്പന്നം തിരിച്ചുള്ള കോൺടാക്റ്റ് വ്യക്തിയെ അല്ലെങ്കിൽ ഒറ്റ പോയിന്റ് കോൺടാക്റ്റായ അക്കൌണ്ട് എക്സിക്യൂട്ടീവിനെ സൃഷ്ടിക്കുക എന്ന ആശയവുമായി നിരവധി കമ്പനികൾ പ്രവർത്തിക്കുന്നു അവൻ അല്ലെങ്കിൽ അവൾ ഉപഭോക്തൃ പ്രതീക്ഷകൾ ഉളവാക്കുകയും കമ്പനിയിലുടനീളമുള്ള പ്രസക്തമായ സേവന ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നു അങ്ങനെ ഒരു ക്രോസ് ഫങ്ഷണൽ ടീം സേവനം നൽകുന്നു ഈ പാഠത്തിൽ നമ്മൾ ആശയവിനിമയ മിശ്രിതത്തെക്കുറിച്ചും സേവന വിതരണത്തെക്കുറിച്ച് ഉപഭോക്താക്കൾക്ക് ശരിയായ ആശയവിനിമയം എങ്ങനെ നടത്താമെന്നും ചർച്ച ചെയ്തു ശരിയായ വാഗ്ദാനങ്ങൾ നൽകുകയും വാഗ്ദാനം ചെയ്തതിനേക്കാൾ അൽപ്പം കൂടുതൽ നൽകുകയും ചെയ്താൽ വാഗ്ദാനവും വിതരണവും തമ്മിലുള്ള ഏതൊരു വിടവും അവസാനിപ്പിക്കാനും അതുവഴി സേവന സംഘടനയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനും കഴിയും സേവന മാർക്കറ്റിംഗ് മിശ്രിതത്തിന്റെ 7 ാമത്തെ പി അതായത് പ്രൈസ് കമ്പനിയുടെ സേവനങ്ങളിൽ നിന്നുള്ള വരുമാന സ്രോതസ്സ് അടുത്ത പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യും ഈ പാഠം കേട്ടതിന് നന്ദി ഇത് സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വളരെയധികം നന്ദി